താഴ്ന്ന താപനില പ്രവർത്തനത്തിന് അനുയോജ്യമായ തെർമോഡൈനാമിക് സൈക്കിളുകളെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് കേന്ദ്രീകൃത നീരാവി പവർ സൈക്കിൾ ഉണ്ട് നീരാവി പവർ സൈക്കിളുകൾ വലിയ അളവിൽ റാങ്കിൻ സൈക്കിളിന് സമാനമാണ് പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട് കലിന സൈക്കിളിനെക്കുറിച്ച് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് മാലിന്യ വീണ്ടെടുക്കൽ ആവശ്യങ്ങൾക്കും സമുദ്രത്തിലെ താപവൈദ്യുതി ഉൽപ്പാദനത്തിനും വലിയ അളവിൽ കലിന ചക്രം വാണിജ്യപരമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ചൂടിൽ നിന്ന് സമുദ്രജലത്തിന്റെ ഉപരിതലത്തിന് താഴെയുള്ള ഉയർന്ന താപനിലയിൽ നിന്ന് നമുക്ക് ഉയർന്ന താപനില ലഭിക്കും അത് വൈദ്യുതി ഉൽപാദനത്തിനായി ഉപയോഗിക്കാം ജിയോതെർമൽ എനർജി ഈ ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാം ഈ കലിന ചക്രം വളരെ വിജയകരമായിരുന്നു കലിന സൈക്കിളിന് കുറച്ച് ദോഷങ്ങളുമുണ്ട് കലിന ചക്രത്തിലെ പരിമിതി ബുദ്ധിമുട്ടുകൾക്കുള്ള കലിന സൈക്കിളിന്റെ പോരായ്മകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ വെള്ളത്തെ അപേക്ഷിച്ച് അമോണിയ കൂടുതൽ നശിപ്പിക്കുന്നതാണ് അതിനാൽ വാട്ടർ അമോണിയ മിശ്രിതം നമ്മൾ ഒരു സാധാരണ ഞാൻ അർത്ഥമാക്കുന്നത് പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ അനുയോജ്യമായ തരത്തിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എച്ച്ആർവിജിയിലെ മറ്റൊരു കാര്യം അതായത് ഹീറ്റ് റിക്കവറി നീരാവി ജനറേറ്റർ നീരാവി ഭിന്നസംഖ്യകൾ പൊതുവെ ഉയർന്നതാണ് തുടർന്ന് താപ കൈമാറ്റം നീരാവിയിലേക്കാണ് അതിനാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് കുറവാണ് അതിനാൽ വലിയ ചൂട് എക്സ്ചേഞ്ചർ ആവശ്യമാണ് എന്നാൽ മറ്റ് നിരവധി ഗുണങ്ങളുണ്ട് എൻഎച്ച് 3 ന്റെ ആഗോളതാപന സാധ്യത എമിഷൻ പോയിന്റിൽ നിന്ന് വളരെ കുറവാണ് എന്നതാണ് ഒരു നേട്ടം അപകട വീക്ഷണത്തിന് ചില പരിമിതികളുണ്ട് എന്നാൽ എമിഷൻ വീക്ഷണകോണിൽ ഇത് വാതകം പോലെ മോശമല്ല നൂറ്റാണ്ടുകളായി സ്വാഭാവികമായി ഉണ്ടാകുന്ന വാതകം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു മറ്റ് പല വാതകങ്ങളേക്കാളും ഭാരം കുറഞ്ഞതിനാൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ ഈ വാതകം നീക്കം ചെയ്യുന്നത് വലിയ പ്രശ്നമല്ല ഇതിനുശേഷം നമ്മൾ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിലേക്ക് വരുന്നു അതിനാൽ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതുപോലെ കലിന സൈക്കിൾ സമാനമായ മറ്റൊരു സൈക്കിളിലേക്ക് പോകാം അതാണ് ഓർഗാനിക് റാങ്കിൻ സൈക്കിൾ ഇപ്പോൾ ഓർഗാനിക് റാങ്കിൻ സൈക്കിൾ ഒരു താപനിലയിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ കലിന സൈക്കിളിനേക്കാൾ താഴ്ന്ന താപനിലയ്ക്ക് ഇത് അനുയോജ്യമാണ് അങ്ങനെയെങ്കിൽ മാലിന്യ താപ സ്രോതസ്സിന്റെ 200oC താപനില നമുക്ക് പറയാം അതിനാൽ ഒരാൾക്ക് ഒരു ഓർഗാനിക് റാങ്കിൻ സൈക്കിളിനെക്കുറിച്ച് ചിന്തിക്കാം സൈദ്ധാന്തികമായി ഓർഗാനിക് റാങ്കിൻ സൈക്കിൾ കുറഞ്ഞ പരമാവധി സൈക്കിൾ താപനിലയിൽ പോലും പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഈ സ്ലൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഓർഗാനിക് റാങ്കൈൻ സൈക്കിൾ നിർമ്മാണവും റാങ്കിൻ സൈക്കിളിലെ പോലെ സൈക്കിളും അർത്ഥമാക്കുന്നത് പ്ലാൻറിൽ ഏതാണ്ട് സമാനമായ തരത്തിലുള്ള ഉപകരണങ്ങളും സൈക്കിളിന്റെ തെർമോഡൈനാമിക് പ്രക്രിയകളും ഉണ്ടാകും എന്നാണ് അവ ഏതാണ്ട് റാങ്കിൻ സൈക്കിൾ പോലെയാണ് ചില സന്ദർഭങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ മിക്ക കേസുകളിലും ഇത് സമാനമാണ് അതിലൂടെയുള്ള ദ്രാവകം വ്യത്യസ്തമാണ് വെള്ളം ഒഴികെയുള്ളതാണ് ഞങ്ങൾ ജലത്തെ പ്രവർത്തന ദ്രാവകമായി ഉപയോഗിക്കുന്നില്ല അപ്പോൾ ദ്രാവകങ്ങൾ എന്തൊക്കെയാണ് സ്വാഭാവിക ദ്രാവകം സിന്തറ്റിക് ദ്രാവകം ഓർഗാനിക് ദ്രാവകം എന്നിവയും ദ്രാവക മിശ്രിതങ്ങളും സാധ്യമാണ് ഇപ്പോൾ ഈ പേര് ഓർഗാനിക് ഫ്ലൂയിഡ് എന്ന പേരിലാണ് ഉരുത്തിരിഞ്ഞത് കാരണം നിരവധി ഹൈഡ്രോകാർബണുകൾ സാധാരണ റഫ്രിജറന്റുകൾ മുതലായവ ഈ ചക്രത്തിന് അനുയോജ്യമായ ദ്രാവകമായി ഉപയോഗിക്കുന്നു അനുയോജ്യമായ ഒരു ദ്രാവകം തിരഞ്ഞെടുക്കുന്നതിന് മതിയായ അവസരങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് ഒന്നോ രണ്ടോ വ്യത്യസ്ത ദ്രാവകങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നല്ല കുറച്ച് ദ്രാവകങ്ങൾ പരീക്ഷിച്ചു ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചു എന്നത് സത്യമാണ് ആ ദ്രാവകങ്ങൾ അവ സാധാരണ റഫ്രിജറന്റിന്റെ ഒരേ കുടുംബത്തിൽ പെട്ടവയാണ് എന്നാൽ നിങ്ങളുടെ റഫ്രിജറന്റ് പോലെയുള്ള രാസ സംയുക്തങ്ങൾക്ക് സമാനമാണ് എന്നാൽ മറ്റ് ദ്രാവകങ്ങളും ഉണ്ടാകാം വേസ്റ്റ് ഹീറ്റ് റിക്കവറിക്ക് അനുയോജ്യമായ താഴ്ന്ന താപനിലയിൽ അവ പ്രവർത്തിക്കാൻ കഴിയും വരണ്ട വികാസത്തിന് സാധ്യതയുണ്ട് ഞാൻ ഇത് വിശദീകരിക്കും പക്ഷേ വരണ്ട വികാസം ഒരു സവിശേഷതയാണ് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ താഴ്ന്ന താപനിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു അത് ചെയ്യുന്നു വിപുലീകരണ പ്രക്രിയയിൽ എന്തെങ്കിലും നാശമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കരുത് കുറഞ്ഞ താപനില പരിധിയിൽ പ്രവർത്തിക്കുന്ന ദ്രാവകം എന്ന നിലയിൽ ജലത്തിന്റെ പരിമിതികളിലൊന്ന് വരണ്ട വികാസം ഇല്ലെന്ന് കാണുക അതായത് താഴ്ന്ന ഊഷ്മാവിൽ വെള്ളം വികസിക്കുമ്പോൾ മിക്ക കേസുകളിലും ഞങ്ങൾ ഒരുതരം ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ അത് വികസിക്കുമ്പോൾ അത് ഘനീഭവിപ്പിക്കുകയും നീരാവി നീരാവി ദ്രാവകം എന്നിവയുടെ മിശ്രിതമായിരിക്കും വികസിക്കുന്ന ദ്രാവകം അതായത് അത് ഭാരം നീരാവി ആയിരിക്കും അതിനാൽ ഈ ഓർഗാനിക് ദ്രാവകം ധാരാളം ഓർഗാനിക് ദ്രാവകം ലഭിക്കുമ്പോൾ അത് ഒഴിവാക്കപ്പെടുന്നു അപ്പോൾ ഓർഗാനിക് റാങ്കിൻ സൈക്കിൾ ചെറിയ ശേഷിയിൽ നിർമ്മിക്കാൻ കഴിയും അത് മറ്റൊരു നേട്ടമാണ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി വേസ്റ്റ് ഹീറ്റ് റിക്കവറി ആപ്ലിക്കേഷനിൽ നമുക്ക് ചിലപ്പോൾ ഉയർന്ന ഊഷ്മാവിൽ നിന്ന് ചൂട് ലഭിക്കും എന്നാൽ ചിലപ്പോൾ മിതമായതോ താഴ്ന്നതോ ആയ താപനില സ്രോതസ്സുകളിൽ നിന്ന് ചൂട് ലഭിക്കും കൂടാതെ പല സന്ദർഭങ്ങളിലും നമുക്ക് പരിമിതമായ അളവിൽ താപ ഊർജ്ജം ലഭിക്കുന്നു അതിനാൽ അതിനായി ഒരു സമ്പൂർണ്ണ പരമ്പരാഗത പവർ സൈക്കിൾ നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ് അത് അനുയോജ്യമല്ല അത് നിക്ഷേപത്തിന് തിരിച്ചടവ് നൽകില്ല അതിനാൽ നിങ്ങളുടെ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിനെ അടിസ്ഥാനമാക്കി ചെറിയ ചെടി രൂപകൽപ്പന ചെയ്യാൻ കഴിയും അത് നേട്ടങ്ങളിലൊന്നാണ് റാങ്കൈൻ സൈക്കിളിന്റെ വളരെ ചെലവേറിയ ഉപകരണങ്ങളിലൊന്ന് എക്സ്പാൻഡർ അല്ലെങ്കിൽ ടർബൈൻ ആണ് അതിനാൽ ഈ ശേഷി ചെറുതായതിനാൽ ഞങ്ങൾക്ക് വിപുലീകരണ ഉപകരണം തിരഞ്ഞെടുക്കാനുള്ള വഴക്കം ലഭിച്ചു തുടർന്ന് വീണ്ടും വിപുലീകരണം കുറഞ്ഞ മർദ്ദമുള്ള ശ്രേണിയിലാണ് അതിനാൽ കുറഞ്ഞ ശ്രേണിയിലായതിനാൽ ചെലവ് കുറഞ്ഞ വ്യത്യസ്തമായ വിപുലീകരണ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു അതിനാൽ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിന്റെ മറ്റൊരു നേട്ടമാണിത് കാരണം പ്ലാന്റ് ചെലവ് ചെറുതാണെങ്കിൽ സൈക്കിൾ ക്ഷമിക്കണം പ്ലാന്റ് ചെലവ് കുറവായിരിക്കും ഓർഗാനിക് റാങ്കിൻ സൈക്കിളിന്റെ കാര്യത്തിൽ ദ്രാവക തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് എന്നത് ഒരു പ്രധാന കാര്യം ഇതുപയോഗിച്ച് ദ്രാവകം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക സ്ലൈഡിലേക്ക് നമുക്ക് പോകാം ഈ പ്രത്യേക സ്ലൈഡ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഭാരം വർദ്ധിപ്പിക്കൽ എന്ന് വിളിക്കുന്നു അതിനാൽ പൂരിത അവസ്ഥയിൽ നിന്ന് നമ്മൾ ദ്രാവകം വികസിപ്പിക്കുകയാണെന്ന് പറയാം അതിനാൽ അത് വികസിക്കുമ്പോൾ അതിന്റെ ദ്രാവക ഉള്ളടക്കം വർദ്ധിക്കുന്നതും നീരാവി ഭാരമായി മാറുന്നതും നിങ്ങൾ കാണും അതിനാൽ ഇത് ഭാരം ഘനീഭവിക്കുന്നതാണ് ടർബൈനിന് ഇത് ദോഷകരമാണ് വെള്ളത്തിന് നമുക്ക് ഇത്തരത്തിലുള്ള വികാസം ഉണ്ടാകും അതിനാൽ രണ്ട് ഘട്ടം താഴികക്കുടം വെള്ളം പോലെയുള്ള ഒരു ദ്രാവകത്തിന്റെ രണ്ട് ഘട്ട താഴികക്കുടത്തെ പ്രതിനിധീകരിക്കുന്നു തുടർന്ന് നമുക്ക് ഈ ഭാരം വിപുലീകരണം ഉണ്ടാകും ഇത് വിപുലീകരണ ഉപകരണത്തിന് നല്ലതല്ല ഇത് വ്യത്യസ്തമായ ഒരു ദ്രാവകത്തിനുവേണ്ടിയുള്ളതാണ് ഇവിടെ രണ്ട് സാഹചര്യങ്ങളിലും വികാസം ഏതാണ്ട് പൂരിത നീരാവി രേഖയ്ക്കൊപ്പമാണെന്നാണ് ഇവിടെ നാം കാണുന്നത് ഈ സാഹചര്യത്തിലോ ഈ സാഹചര്യത്തിലോ നമ്മൾ ഐസെൻട്രോപിക് വികാസം എടുത്തിട്ടുണ്ട് എന്നാൽ പൂരിത നീരാവി രേഖ ഐസെൻട്രോപിക് വികാസരേഖയെ പിന്തുടരുന്നു കൂടാതെ അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഭാരമുള്ള മേഖലയിലേക്ക് പോകില്ല ഞങ്ങൾ വരണ്ട പൂരിത അവസ്ഥയിൽ തുടരും അതിനാൽ ഇത് ഒരു പ്രത്യേക ദ്രാവകത്തിന്റെ ഒരു പ്രത്യേക കേസാണ് ഇതുപോലുള്ള കുറച്ച് ദ്രാവകം ഉണ്ടാകാം അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ ഇവിടെ മറ്റൊരു തരത്തിലുള്ള സാഹചര്യം കാണാം ഇതിൽ ദ്രാവകം വികസിക്കുമ്പോൾ അത് അമിതമായി ചൂടാകുന്ന പ്രദേശത്തേക്ക് കൂടുതൽ കൂടുതൽ പോകുന്നതായി നാം കണ്ടെത്തുന്നു ഭാരം മേഖലയിൽ പോകുന്നതിനുപകരം ഉയർന്ന അളവിലുള്ള ദ്രാവക ഉള്ളടക്കമുള്ള രണ്ട് ഘട്ട മേഖലയിലേക്ക് പോകുന്നതിനുപകരം നമുക്ക് കൂടുതലും പരിചിതമായതിനാൽ റാങ്കൈൻ സൈക്കിളിന്റെ പ്രവർത്തന ദ്രാവകമായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് അതിനാൽ ഇവിടെ അത് അമിതമായി ചൂടായ പ്രദേശത്തേക്ക് പോകുകയും അത് വരണ്ടതായി മാറുകയും ചെയ്യുന്നു അതിനാൽ ദ്രാവക ഘനീഭവിക്കുന്ന പ്രശ്നമില്ല വിപുലീകരണ ഉപകരണത്തിന്റെ കേടുപാടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നില്ല അതിനാൽ പൊതുവെ ഓർഗാനിക് റാങ്കിൻ സൈക്കിളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു അതുവഴി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ ലഭിക്കും അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ നമുക്ക് ലഭിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് സൂപ്പർ ഹീറ്റിംഗ് ആവശ്യമില്ല അതിനാൽ കുറഞ്ഞ താപനിലയിൽ പ്രവർത്തിക്കാം ഒന്നുകിൽ കുറഞ്ഞ സൂപ്പർഹീറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൂപ്പർഹീറ്റ് ഇല്ലാതെയോ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഈ അനുയോജ്യമായ ദ്രാവകം നമുക്ക് തിരഞ്ഞെടുക്കാം അത് വരണ്ട അവസ്ഥയിൽ വികസിക്കും അതിനാൽ നിങ്ങളുടെ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിന്റെ ഒരു നേട്ടമാണിത് അതിനാൽ ഓർഗാനിക് റാങ്കിൻ സൈക്കിൾ ഞാൻ ഓർഗാനിക് റാങ്കിൻ സൈക്കിൾ വരച്ചാൽ അത് ഇതുപോലെയായിരിക്കും ഞങ്ങൾക്ക് ഒരു ടർബൈൻ അല്ലെങ്കിൽ എക്സ്പാൻഡർ ശരിയാകും അതിനാൽ ഞങ്ങൾക്ക് ഒരു ടർബൈനോ എക്സ്പാൻഡറോ ഉണ്ടായിരിക്കും തുടർന്ന് ഞങ്ങൾക്ക് സാധാരണ കണ്ടൻസർ ഉണ്ടായിരിക്കും ഇത് നിങ്ങളുടെ കണ്ടൻസറാണ് തുടർന്ന് ഞങ്ങൾക്ക് പമ്പ് ഉണ്ടായിരിക്കും തുടർന്ന് നമുക്ക് പ്രത്യേകമായി ഒരു സൂപ്പർഹീറ്റഡ് ബാഷ്പീകരണിയും സൂപ്പർ ഹീറ്ററും ഉണ്ടായിരിക്കാം അതിനാൽ നമുക്ക് അത് ഇന്ത്യൻ തെർമോഡൈനാമിക് വിമാനം കാണണമെങ്കിൽ അതിനാൽ തെർമോഡൈനാമിക് തലം ഇതുപോലെയായിരിക്കും ഇതിന് സമാനമായ രണ്ട് ഘട്ട താഴികക്കുടം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് നിങ്ങളുടെ ബോയിലർ മർദ്ദമാണ് അതിനാൽ സൂപ്പർഹീറ്റ് ഇല്ലാതെ ഞങ്ങൾ എടുക്കുന്നു നമുക്ക് ഈ വിപുലീകരണ പ്രക്രിയ നടത്താം തുടർന്ന് നമുക്ക് കണ്ടൻസേഷൻ പ്രക്രിയ നടത്താം തുടർന്ന് നമുക്ക് പമ്പ് ചെയ്യാം അതിനാൽ ദ്രാവകത്തിന്റെ സാധാരണ സ്വഭാവം കാരണം സൂപ്പർ ഹീറ്റർ ആവശ്യമില്ലെന്ന് ഞാൻ കാണിച്ച സൈക്കിൾ അതിനാൽ ഇത് വീണ്ടും Ts ഡയഗ്രം ആണ് നമുക്ക് ഇവിടെ ഹീറ്റ് റിജക്ഷൻ ലഭിച്ചുവെന്ന് പറയാം അതിനാൽ ഇത് കണ്ടൻസറാണ് ഈ രണ്ട് ഡയഗ്രാമും തമ്മിൽ എനിക്ക് പരസ്പരബന്ധം വേണമെങ്കിൽ ഇത് പോയിന്റ് 1 ആണെന്ന് പറയട്ടെ ഇത് പോയിന്റ് 2 ആണ് അതിനാൽ 1 ഉം 2 ഉം പിന്നെ 2 മുതൽ 3 വരെ ഈ 3 വരെ ഈ 3 ആണ് തുടർന്ന് ഇത് 4 ആണ് വ്യക്തമായും ഈ സാഹചര്യത്തിൽ നമുക്ക് ഇല്ലാത്തത് ഇല്ല സൂപ്പർ ഹീറ്റർ അതിനാൽ ഓർഗാനിക് റാങ്കിൻ സൈക്കിൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് കാരണം ഇതിന് കുറഞ്ഞ താപനിലയിൽ പ്രവർത്തിക്കാൻ കഴിയും ഞാൻ പറഞ്ഞതുപോലെ സൈക്കിൾ വളരെ ലളിതമാണ് സാധാരണ ഗ്രാൻറിംഗ് സൈക്കിളുകളുടെ സങ്കീർണ്ണത അവിടെയില്ല വിപുലീകരണ ഉപകരണം ചെലവ് കുറവാണ് സൂപ്പർ ഹീറ്റിംഗ് ഇല്ല പ്രത്യേകിച്ച് കുറഞ്ഞ ഊഷ്മാവ് ചൂടിനെ ഉപയോഗപ്രദമായ ജോലിയാക്കി മാറ്റാം അതിനാൽ അതാണ് ജൈവത്തിന്റെ ഗുണം മാലിന്യ താപം വീണ്ടെടുക്കുന്നതിനും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്കുമായി റാങ്കൈൻ സൈക്കിൾ വളരെ വിപുലമായി ഉപയോഗിക്കുന്നു ഇപ്പോൾ നീരാവിയുടെ മാസ് ഫ്ലോ റേറ്റ് വോളിയം ഫ്ലോ റേറ്റ് എന്ന നിലയിൽ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിലെ വികാസം കുറവായതിനാൽ മർദ്ദം കുറഞ്ഞതിനാൽ ഒരു പരമ്പരാഗത ടർബൈനിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല അതിനാൽ ഇത്തരത്തിലുള്ള ടർബൈൻ ഉപയോഗിക്കാവുന്ന ഒരു വലിയ സ്റ്റീം പവർ പ്ലാന്റിനുള്ള പരമ്പരാഗത ടർബൈൻ ഇതാണ് എന്ന് ഞാൻ കാണിക്കട്ടെ കലിന സൈക്കിളിന് പോലും ഇത്തരത്തിലുള്ള ടർബൈനിന്റെ ചെറിയ പതിപ്പ് ഉപയോഗിക്കാം എന്നാൽ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിന്റെ കാര്യത്തിൽ ഞങ്ങൾ സാധാരണയായി വ്യത്യസ്ത തരം എക്സ്പാൻഡർ ഉപയോഗിക്കുന്നു ഒരു സാധ്യത റേഡിയൽ എക്സ്പാൻഡർ അല്ലെങ്കിൽ റേഡിയൽ ടർബൈനിന് ഒരു ഘട്ടം മാത്രമേയുള്ളൂ കാരണം മർദ്ദം വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇവിടെ ഒരു ഘട്ടത്തിനുള്ളിൽ ഒരാൾക്ക് വിപുലീകരണം നടത്താം ഒരാൾക്ക് ഇത്തരത്തിലുള്ള റേഡിയൽ ടർബൈൻ ഉണ്ടായിരിക്കാം റേഡിയൽ ടർബൈനിന്റെ വ്യത്യസ്ത ഡിസൈനുകൾ ഉണ്ട് ഞാൻ ഒരു പ്രത്യേക തരം മാത്രം കാണിച്ചു റാങ്കൈൻ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവ വ്യത്യസ്ത സാധ്യതകളാണ് നീരാവിയുടെ വികാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റോട്ടോഡൈനാമിക് മെഷീനുകൾ ടർബോ മെഷീനുകൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മെഷീനുകളും നിങ്ങളുടെ വികാസത്തിന് അനുയോജ്യമാണ് പ്രത്യേകിച്ചും മർദ്ദം റേഞ്ച് ആയിരിക്കുമ്പോൾ ചെറുതും വോളിയം ഫ്ലോ റേറ്റ് ചെറുതുമാണ് അതിനാൽ ഇവിടെ ഞങ്ങൾ വ്യത്യസ്ത തരം എക്സ്പാൻഡറുകൾ കാണിക്കുന്നു ഇത് ഒരു വാൻ തരം വികസിപ്പിച്ചതായി കാണുക ഒരു ദ്രാവകം എങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുവെന്നും പിന്നീട് അത് വികസിക്കുന്നുവെന്നും പിന്നീട് അത് മറ്റൊരു പോർട്ടിൽ നിന്ന് പുറത്തുവരുമ്പോൾ അത് ഒരു തുറമുഖത്തിലൂടെ പ്രവേശിക്കുന്നു വികസിക്കുന്നു പിന്നീട് അത് മറ്റൊരു പോർട്ടിലൂടെ പുറത്തേക്ക് വരുന്നു ഇത് ചെയ്യുന്നത് അതിനാൽ ഇതിന് ഇത് തിരിക്കാൻ കഴിയും അത് ഒരു ഷാഫ്റ്റിലേക്ക് കീ ചെയ്താൽ ഷാഫ്റ്റ് കറങ്ങും അതിനാൽ ഒരു സ്ക്രൂ എക്സ്പാൻഡർ ഉണ്ടാകാം അത് ഒരുതരം ട്വിന്നിംഗ് സ്ക്രൂ വികസിപ്പിച്ചതായി കാണിക്കുന്നു അത് ദ്രാവകത്തോടൊപ്പം ഉയർന്ന മർദ്ദം കടന്നുപോകുമ്പോൾ ഇഴചേർന്ന സ്ക്രൂവിന്റെ ഭാഗങ്ങളിലൂടെ കടന്നുപോകും രണ്ട് സ്ക്രൂകൾ ഉള്ളതിനാൽ അത് ഒരുതരം വികാരം പകരാൻ ശ്രമിക്കും ഒരാൾക്ക് അതിൽ നിന്ന് ഉപയോഗപ്രദമായ ജോലികൾ നേടാനാകും പിസ്റ്റൺ എക്സ്പാൻഡർ ഉണ്ടാകാം പിസ്റ്റണുകളുടെ എണ്ണം ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് വിപുലീകരണം ചൂടാകാം ഉയർന്ന മർദ്ദമുള്ള ദ്രാവകം പിസ്റ്റണിനെ തള്ളും തുടർന്ന് ആ ചലനത്തെ റോട്ടറി മോഷനാക്കി മാറ്റാനും സ്ക്രോൾ ടൈപ്പ് എക്സ്പാൻഡർ ഉണ്ടാകാനും കഴിയും അതിനാൽ അതും സാധ്യമാണ് അതിനാൽ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നിങ്ങളുടെ ഓർഗാനിക് റാങ്കിൻ സൈക്കിളിനുള്ള സാധ്യതകളാണ് കൂടുതലോ കുറവോ റാങ്കൈൻ സൈക്കിൾ തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റ് ചില സൈക്കിളിന് പോലും താഴ്ന്ന താപനില താഴ്ന്ന മർദ്ദത്തിലുള്ള റാങ്കിൻ സൈക്കിളിന്റെ തത്വം അതിനാൽ ഇത് ഈ സൈക്കിളിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അവസാനമായി ഞാൻ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ത്രിതല ഫ്ലാഷ് സൈക്കിളിനെക്കുറിച്ചാണ് അതിനാൽ ഞാൻ എഴുതുന്നതിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇത് ലാറ്ററൽ ഫ്ലാഷ് സൈക്കിൾ പരീക്ഷിക്കുക എന്നതാണ് അതിനാൽ ഒരു ട്രൈലാറ്ററൽ ഫ്ലാഷ് സൈക്കിൾ ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കില്ല കാരണം ഇത് മറ്റ് രണ്ട് സൈക്കിളുകളുടെ അതേ ക്ലാസാണ് ഇത് വീണ്ടും റാങ്കിൻ സൈക്കിൾ ഘടകങ്ങളുടെ ചില പരിഷ്ക്കരണമാണ് ഞാൻ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ പോകുന്നില്ല അതിനാൽ T s വിമാനത്തിലെ ട്രൈലാറ്ററൽ ഫ്ലാഷ് സൈക്കിൾ ഇതുപോലെയാണ് ഇത് സ്റ്റീം ഡോം ആണ് സൈക്കിൾ ഇതുപോലെയാണ് ഇത് പ്രവർത്തിക്കുന്നു ഇത് രണ്ട് ഘട്ട താഴികക്കുടമാണ് ഇത് ചെറിയ മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നു അതിനാൽ പമ്പ് വർക്ക് കുറയും ഞങ്ങൾ ഈ പോയിന്റ് വരെ എത്തിയെന്ന് പറയട്ടെ ഈ പോയിന്റ് പൂരിത ലൈനുമായി ഏതാണ്ട് പൊരുത്തപ്പെടുന്നു അതിനുശേഷം ചൂടാക്കൽ ഉണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് വിപുലീകരണത്തിനായി പോകുന്നു ഇതാണ് കണ്ടൻസേഷൻ അതിനാൽ ഇതാണ് നിങ്ങളുടെ ചൂടാക്കൽ വികാസം ഇതാണ് നിങ്ങളുടെ ഘനീഭവിക്കൽ അതിനാൽ അടിസ്ഥാനപരമായി ഇതിന് മൂന്ന് ലഭിച്ചുവെന്ന് നിങ്ങൾ കാണുന്നു ചെറിയ അളവിലുള്ള പമ്പ് വർക്ക് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഇത് ഒരു ത്രികോണം പോലെയാണ് അത് ഒരു ത്രികോണം പോലെയാണ് ഇതിന് മൂന്ന് വശങ്ങളുണ്ട് ഇതിന് മൂന്ന് വശങ്ങളുണ്ട് സൈക്കിളിന് മൂന്ന് വശങ്ങളുണ്ട് അതിനാൽ അതുകൊണ്ടാണ് ഇതിനെ ത്രിതല ചക്രം എന്ന് വിളിക്കുന്നത് മൊത്തം വിപുലീകരണം രണ്ട് ഘട്ട മേഖലയ്ക്കുള്ളിലാണെന്ന് നിങ്ങൾ കാണുന്നു ചൂടുള്ള വാതകം തണുപ്പിച്ചതിന് ശേഷം ചൂടാക്കൽ പ്രക്രിയ വളരെ വിശ്വസ്തമാണ് എന്നതാണ് നേട്ടം അതിനാൽ ഈ നേട്ടം ഇതാണ് നേട്ടം അതുകൊണ്ടാണ് ഈ കുറഞ്ഞ താപനില പരിധിയിൽ ഈ ചക്രത്തിന്റെ കാര്യക്ഷമത ഉയർന്നതും അതിന്റെ കാര്യക്ഷമതയും ഉയർന്നതും വ്യക്തമായും നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വ്യക്തമായും വെള്ളം ദ്രാവകമാകാൻ കഴിയില്ല വെള്ളം അമോണിയ മിശ്രിതത്തെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ദ്രാവകം ഉണ്ടായിരിക്കണം വിപുലീകരണ ഉപകരണം രണ്ട് ഘട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക ഉപകരണമായിരിക്കും അതിനാൽ ദ്രാവക നീരാവി മിശ്രിതം കൈകാര്യം ചെയ്യാൻ അനുയോജ്യമായ സ്ക്രൂ എക്സ്പാൻഡർ മുതലായവ വ്യത്യസ്ത എക്സ്പാൻഡറുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഒരു ത്രിതല ഫ്ലാഷ് സൈക്കിളിന്റെ രൂപകൽപ്പനയോ സാക്ഷാത്കാരമോ അസാധ്യമല്ല അതിനാൽ മാലിന്യ താപ സ്രോതസ്സുകളെ ആശ്രയിച്ച് ഒരാൾക്ക് ഒരു ത്രിതല ഫ്ലാഷ് സൈക്കിൾ ഉണ്ടായിരിക്കാം അതിനാൽ റാങ്കിൻ സൈക്കിളിന്റെ വ്യതിയാനവും കുറഞ്ഞ താപനിലയിൽ ഒരാൾക്ക് ഉപയോഗിക്കാവുന്നതുമായ എല്ലാ വ്യത്യസ്ത സൈക്കിളുകളും ഇപ്പോൾ ഞാൻ വിവരിച്ചു ഇപ്പോൾ എനിക്ക് തിരികെ പോകാൻ ഇഷ്ടമാണ് മറ്റൊരു തരത്തിലുള്ള വിഷയത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഊർജ്ജത്തിന്റെയും പ്രോസസ്സ് താപത്തിന്റെയും കോജനറേഷൻ ആണ് ഇതോടെ സൈക്കിളുകളെക്കുറിച്ചും പാഴ് താപം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും ഞങ്ങളുടെ ചർച്ച അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പല ഫാക്ടറികളിലും നിങ്ങളുടെ നീരാവി ഉപയോഗിച്ച് പ്രോസസ്സ് ചൂടാക്കാനും പ്രോസസ്സ് ചൂടാക്കാനും ആവശ്യമായി വരും ഇത് വളരെ നല്ല ഓപ്ഷനാണ് കാരണം നീരാവിയിൽ താപത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അതിനാൽ നീരാവി വഴി ചൂടാക്കൽ പ്രക്രിയ വളരെ നല്ല ഓപ്ഷനാണ് അതേ സമയം വ്യവസായങ്ങൾക്ക് വിവിധ തരത്തിലുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ലൈറ്റിംഗിനും മറ്റും ആവശ്യമായ ഊർജ്ജം ഉണ്ടായിരിക്കും മറ്റ് ആവശ്യങ്ങൾക്ക് അതിന് വൈദ്യുതിയുടെ ആവശ്യകത ഉണ്ടായിരിക്കും അതിനാൽ തുടക്കത്തിൽ ആളുകൾ വെവ്വേറെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഈ ചൂടാക്കൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഊർജ്ജം ചെലവഴിക്കുകയും ചെയ്തു എന്നാൽ നമുക്ക് അവയെ ഒരുമിച്ച് ചേർക്കാം അതിനാൽ ഇവിടെ നമ്മൾ ഒരു ബോയിലർ സ്കീം കാണിക്കുന്നു അത് ബാക്ക് പ്രഷർ ടർബൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ടർബൈനിലേക്ക് പോകുന്നു തുടർന്ന് നീരാവി പുറത്തേക്ക് വരുന്നു അത് കണ്ടൻസറിലേക്ക് പോകാതെ പ്രോസസ്സ് ചൂടാക്കാൻ ഉപയോഗിക്കുന്നു തുടർന്ന് അത് ഒരു പമ്പിലേക്ക് പോയി അത് വീണ്ടും പോകുന്നു തിരികെ ബോയിലറിലേക്ക് അതിനാൽ ഇവിടെ നമ്മൾ കാണുന്നത് നമുക്ക് എല്ലാ പ്രക്രിയകളും ഉണ്ടായിരിക്കുമെന്നും ഇവിടെ ഒരു കണ്ടൻസറിലെ കണ്ടൻസേഷൻ പ്രക്രിയയെ പ്രോസസ്സ് ഹീറ്റിംഗ് വഴി മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ നീരാവി ഉപയോഗിച്ച് ചൂടാക്കൽ പ്രക്രിയയുടെ പ്രയോജനം മർദ്ദം സ്ഥിരമായി നിലനിർത്തിയാൽ നീരാവി ഘനീഭവിക്കുമ്പോൾ അതിന്റെ താപനിലയും സ്ഥിരമായിരിക്കും എന്നതാണ് അതിനാൽ സ്ഥിരമായ താപനില ചൂടാക്കൽ സാധ്യമാണ് അത് പല പ്രക്രിയകൾക്കും ആവശ്യമാണ് അതിനാൽ കോജനറേഷന്റെ കാര്യക്ഷമത ഞങ്ങൾ അതിനെ കോജനറേഷൻ എന്ന് വിളിക്കുന്നു കാരണം നമ്മൾ ഊർജ്ജം ഉത്പാദിപ്പിക്കുകയും അതേ സമയം ചൂടാക്കൽ ആവശ്യകതയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ടർബൈൻ ചെയ്യുന്ന ഡബ്ല്യുടി വർക്കാണ് താപ സ്രോതസ്സിൽ നിന്ന് നമ്മൾ എടുത്ത താപമായ QH Q1 അതിനാൽ ഇത് പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് വൈദ്യുതിയുടെയും നീരാവിയുടെയും ഒരു പ്രത്യേക ഉൽപ്പാദനത്തിനായി ഒരു യൂണിറ്റ് മൊത്തം ഊർജ്ജ ഉൽപ്പാദനത്തിൽ താപം ചേർത്താൽ മൊത്തം ഊർജ്ജ ഉൽപാദനത്തിന്റെ e എന്നത് വൈദ്യുതിയുടെ അംശമാണ് അതിനാൽ e എന്നത് WT ടർബൈൻ വാട്ട് എന്ന് എഴുതാം അതിനാൽ എടുത്ത മൊത്തം ഊർജ്ജമാണിത് അതിനാൽ ഇതാണ് നിങ്ങളുടെ ടർബൈൻ ജോലിയും ചൂടും വൈദ്യുതിക്കായി എടുക്കുന്ന അംശവും ഇതാണ് ഇപ്പോൾ ƞe എന്നത് ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കാര്യക്ഷമതയും ƞh എന്നത് നീരാവി അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ജനറേഷൻ കാര്യക്ഷമതയും ആണ് സംയോജിത കാര്യക്ഷമത ഈ ƞc നൽകുന്നു നമ്മൾ സഹജനനത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘടകമാണിത് അവസാനമായി കോജനറേഷന്റെ ഏറ്റവും അനുയോജ്യമായ കോൺഫിഗറേഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്രമീകരണം ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു പക്ഷേ അത് വളരെ സാധാരണമല്ല മറുവശത്ത് വളരെ സാധാരണമായ കാര്യം എന്തെന്നാൽ ടർബൈനിലെ നീരാവി താഴ്ന്ന മർദ്ദത്തിന്റെ അറ്റത്തേക്ക് ഇടയ്ക്ക് വികസിക്കുന്നു ഞങ്ങൾ നിശ്ചിത അളവിൽ നീരാവി എടുക്കുന്നു അത് പ്രോസസർ ഹീറ്ററിലേക്ക് പോയി ഘനീഭവിക്കുന്നു ബാക്കിയുള്ള നീരാവി ഏറ്റവും കുറഞ്ഞ മർദ്ദം വരെ വികസിക്കാൻ അനുവദിക്കുന്നു ടർബൈൻ പിന്നീട് ഒരു കണ്ടൻസറിലേക്ക് കൊണ്ടുപോയി ഘനീഭവിച്ച ശേഷം രണ്ട് കണ്ടൻസേറ്റും ബോയിലറിലേക്ക് പോകുന്നു ഞങ്ങൾ പ്രധാനപ്പെട്ട അക്കങ്ങൾ നൽകിയ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സൈക്കിൾ ഡയഗ്രം ഇതുപോലെയായിരിക്കും WT ടർബൈൻ ആയ ഈ ജോലി ഞങ്ങൾക്ക് ലഭിച്ചു മൊത്തം നീരാവി താപത്തിന്റെ Ws ഭാഗം പ്രോസസ്സ് ചൂടാക്കലിനായി പോകുകയും താപത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വികസിക്കുകയും ചെയ്യും അതിനാൽ ഇത് പിണ്ഡത്തിന്റെ ബാലൻസിൽ നിന്നുള്ള ക്യുഎച്ച് പ്രോസസ്സ് ഹീറ്റിംഗിനായി നൽകുന്ന താപമാണ് Q2 കണ്ടൻസറിലെ കണ്ടൻസിങ് സ്റ്റീം വഴി താപം നിരസിക്കപ്പെടും Q1 എന്നത് താപം കൂട്ടിച്ചേർക്കലാണ് ഈ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്ക് വളരെ പ്രാഥമികമായ ഒരുതരം ഊർജ്ജ സന്തുലിതാവസ്ഥ ഉണ്ടാക്കാം മുമ്പത്തെ ചിത്രത്തിന്റെ സഹായത്തോടെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് പ്രോസസ്സ് ചൂടാക്കുന്നതിന് എത്ര നീരാവി എടുക്കണമെന്ന് പ്ലാന്റ് ലേഔട്ട് സൈക്കിൾ ഡിസൈൻ തീരുമാനിക്കാം എന്ത് സമ്മർദ്ദത്തിലാണ് അത് പുറത്തെടുക്കേണ്ടത് അതിനാൽ ഇതെല്ലാം ഒരാൾക്ക് തീരുമാനിക്കാം വ്യക്തമായും അതിന്റെ കാര്യക്ഷമത എങ്ങനെ നിർണ്ണയിക്കാമെന്ന് ഞാൻ വിവരിച്ചു അതിനാൽ ഈ ചെറിയ വിശകലനം ഉപയോഗിച്ച് പ്രോസസ്സിംഗിനും പവർ സംയോജിത പ്രോസസ്സിംഗിനും പവർ ചെയ്യുന്നതിനുമായി ഒരു പ്ലാന്റ് പ്രോസസ്സ് രൂപകൽപ്പന ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ ഒരാൾക്ക് ഒരു പ്രാഥമിക രൂപകൽപ്പന ചെയ്യാൻ കഴിയും അതിനാൽ വ്യത്യസ്ത തരം തെർമോഡൈനാമിക് സൈക്കിളുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ഇതോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ നിന്ന് ഞങ്ങൾ ചൂട് എക്സ്ചേഞ്ചർ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകും പാഴ് താപം വീണ്ടെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതിനാൽ താപം വ്യത്യസ്ത രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ട്രീമുകളിലേക്ക് മാറ്റുകയോ ചെയ്യണം അങ്ങനെ അത് സാധ്യമാണ് അതിനായി നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ ചൂട് എക്സ്ചേഞ്ചറിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ പോകുന്നു